ശരി വൈദ്യുതകാന്തികതയിലെ അദ്വിതീയ സിദ്ധാന്തത്തെ കുറിച്ചുള്ള ചർച്ചയുമായി ഞങ്ങൾ ഞങ്ങളുടെ ചർച്ച തുടരും അതിനാൽ അദ്വിതീയ സിദ്ധാന്തത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് അദ്വിതീയമായ ഒരു കാര്യത്തിൽ നമുക്ക് താൽപ്പര്യമുണ്ടാകുന്നതിന് വളരെ പ്രായോഗികമായ ഒരു കാരണമുണ്ട് അതാണ് ഞാൻ ഒരു പ്രായോഗിക സാഹചര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ആന്റിന ഉണ്ടെന്ന് പറയാം എല്ലായിടത്തും പ്രസരിക്കുന്ന ഈ മുറിയിൽ ഘടിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയാം CM ഈ കോഴ്സ് പഠിച്ച ഒരാളാണ് നിങ്ങളുടേത് ഫീൽഡ് എന്താണെന്ന് കണക്കാക്കാൻ ആവശ്യപ്പെടുന്നു ഇപ്പോൾ നിങ്ങൾ അത് ചെയ്യുക ഉത്തരം അദ്വിതീയമാകാൻ പോകുന്നില്ലെങ്കിൽ കണക്കുകൂട്ടൽ ശരിയായി ചെയ്യുന്നതിന്റെ പ്രയോജനം എന്താണെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ നന്ദിയോടെ വൈദ്യുതകാന്തികത്തിൽ വളരെ ശക്തമായ ഒരു സിദ്ധാന്തമുണ്ട് അത് നമുക്ക് ഉറപ്പുനൽകുന്നു ചില വ്യവസ്ഥകളിൽ നമ്മുടെ ശ്രമകരമായ കണക്കുകൂട്ടലുകൾക്ക് ശേഷം നമുക്ക് ലഭിക്കുന്ന ഉത്തരം അദ്വിതീയമായിരിക്കും അതിനാൽ അത് മുഴുവൻ മൂല്യവത്താക്കി മാറ്റുന്നു അതിനാൽ സിദ്ധാന്തത്തിന്റെ പ്രസ്താവന ശരിയാണ് അതിനാൽ ഫീൽഡും ഞാൻ സംസാരിക്കുന്ന ഫീൽഡും ചില ഉറവിടങ്ങൾ സൃഷ്ടിച്ച ഇ എച്ച് എന്നിവയെക്കുറിച്ചാണെന്ന് അത് പറയുന്നു അതിനാൽ നമുക്ക് ഇവിടെ കുറച്ച് വോളിയം എടുത്ത് നിലവിലെ ചില ഉറവിടങ്ങൾ ഇവിടെ നൽകാം ഇത് ഒരു ഫീൽഡ് E H നിർമ്മിക്കാൻ പോകുന്നു അതിനാൽ ഞാൻ ഒരു സ്രോതസ്സ് J എടുക്കുകയാണെങ്കിൽ ഒരു ലോസി വോളിയം V ഉള്ളിൽ ഈ മൂന്ന് വ്യവസ്ഥകളിൽ ഏതെങ്കിലുമൊന്നിന് കീഴിലുള്ള ഫീൽഡുകൾ അദ്വിതീയമാണ് ഇത് ഈ മൂന്ന് വ്യവസ്ഥകളിൽ ഒന്നുമല്ലെന്ന് എന്താണ് സിദ്ധാന്തം പറയുന്നത് അപ്പോൾ ഈ മൂന്ന് വ്യവസ്ഥകൾ എന്തൊക്കെയാണ് അതിനാൽ ഈ വോള്യത്തിന് കുറച്ച് ഉപരിതല എസ് ഉണ്ട് ഇത് ഈ പ്രതലത്തിൽ E tangential ആണെന്നാണ് പറയുന്നത് എല്ലാ എസ് ഓകെയിലും എനിക്ക് ഇ ടാൻജൻഷ്യൽ അറിയാമെന്ന് കരുതുക അത് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കണക്കുകൂട്ടലിന്റെ ഫലമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് ഫീൽഡുകൾ അദ്വിതീയമാണ് ശരിയായ മറ്റൊരു പരിഹാരമില്ല E H ഫീൽഡുകൾക്കിടയിൽ ഒരുതരം സിമ്മെട്രീ ഉണ്ടെന്ന് കണ്ടതിനാൽ അടുത്ത അവസ്ഥ സമാനമാണ് അതിനാൽ ഇത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ S അറിയാമെങ്കിൽ ഫീൽഡ് അദ്വിതീയമാണ് പിന്നെ തീർച്ചയായും ഉണ്ട് മൂന്നാമത്തെ ഓപ്ഷൻ ഒരുതരം രേഖീയ സംയോജനമാണ് അത് നിങ്ങൾ എനിക്ക് ചില ഭാഗങ്ങളിലും മുകളിലും നൽകുന്നു ശേഷിക്കുന്ന ഭാഗം അതിനാൽ ഈ വ്യവസ്ഥകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ലഭിക്കുന്ന ഫീൽഡ് അദ്വിതീയമാണ് അതിനാൽ നിങ്ങൾക്ക് ഒരു CEM പ്രശ്നത്തെ സമീപിക്കണമെങ്കിൽ അതിർത്തിയിലെ ടാൻജെൻഷ്യൽ E ഫീൽഡുകൾ വ്യക്തമാക്കേണ്ടതുണ്ടെന്നും ഇത് നിങ്ങളോട് പറയുന്നു നിങ്ങൾ അത് ചെയ്തുകഴിഞ്ഞാൽ ഈ സമവാക്യങ്ങൾ പരിഹരിക്കുന്നതിന് നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് നടപടിക്രമവും ഞങ്ങൾ നിങ്ങൾക്ക് ഒരു അദ്വിതീയ പരിഹാരം നൽകും ഇപ്പോൾ ഞാൻ ഇതുപോലൊരു ആന്റിന ഇവിടെ വെച്ചിട്ടുണ്ടെന്ന് കരുതി നിങ്ങൾ ചോദിച്ചേക്കാം അത് ശൂന്യമായ സ്ഥലത്ത് എവിടെയും ഒന്നുമില്ല അതിനാൽ ഈ സാഹചര്യത്തിൽ ഫീൽഡുകൾ അദ്വിതീയമായിരിക്കും അത് നക്ഷത്രാന്തര ഇടത്തിന്റെ മധ്യത്തിൽ എവിടെയും അതിരുകളില്ല ഞാൻ ഇവിടെ കറന്റ് വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് കരുതുന്ന ഈ ആന്റിനയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ഫീൽഡുകൾ അദ്വിതീയമാകുമോ കാരണം അതെ എന്നാണ് ഉത്തരം വിദ്യാർത്ഥി അതിർത്തിക്ക് ഒരു അതിരുകൾ അനന്തതയിലാണ് ഇത് ഭൌതിക മണ്ഡലമായതിനാൽ അതിന് ശാശ്വതമായി തുടരാനാവില്ല അതിനാൽ നിസ്സാരമായി 0 ശരിയാണ് അതിനാൽ ഈ സാഹചര്യത്തിൽ അനന്തതയിൽ 0 ആയിരിക്കുമെന്ന് ചിന്തിക്കാതെ തന്നെ ഞാൻ വ്യക്തമാക്കിയതും പരോക്ഷമായി പറഞ്ഞതുമാണ് ഈ സാഹചര്യത്തിൽ ഫീൽഡുകൾ അദ്വിതീയമായിരിക്കും അതിനാൽ ഈ ഉദാഹരണത്തിൽ കുറച്ചുകൂടി വിശദമായി പറഞ്ഞാൽ ഇത് ഒരു ക്ലോസ്ഡ് വോളിയത്തിന്റെ ഒരു ഉദാഹരണമാണ് ഇതുപോലെയുള്ള മറ്റൊരു വ്യത്യസ്ത വോള്യം നിങ്ങൾ കാണാനിടയുണ്ട് നമുക്ക് ഇത് പറയാം നമുക്ക് വോളിയം പറയാം ഇവിടെ ഒരു കറന്റ് സോഴ്സ് ഉണ്ട് J ഇതാണ് വോളിയം V ശെരിയല്ലേ ഈ അനന്തതയ്ക്ക് ഇവിടെ അതിരുകളില്ല ഞാൻ V മേഖലയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അതിനാൽ ഇപ്പോൾ ഏത് പ്രതലത്തിൽ ഫീൽഡുകൾ അദ്വിതീയമാകാൻ എന്താണ് വ്യക്തമാക്കേണ്ടത് S അനന്തമാണ് ഇതാണ് S അതിനാൽ വോളിയത്തെ ഏത് പ്രതലങ്ങൾ ബന്ധിപ്പിച്ചാലും ഈ സിദ്ധാന്തം ഇവിടെയും നിലനിർത്തുന്നു അപ്പോൾ ഈ വോളിയം V യ്ക്ക് പ്രതലങ്ങൾ എന്തൊക്കെയാണ് S അനന്തത എന്നത് ഒരു പ്രതലവും S ആണ് മറ്റൊരു പ്രതലവും S അനന്തത അനന്തമായി അകലെയുള്ള ഫീൽഡുകൾ ഭൌതികമായി 0 ലേക്ക് പോകും അതിനാൽ അനന്തതയിലുള്ള ടാൻജെൻഷ്യൽ ഫീൽഡുകൾ എനിക്കറിയാം ഈ അതിർത്തിയിലെ സ്പർശന ഫീൽഡുകൾ ഏതൊക്കെയാണെന്ന് എനിക്ക് നിങ്ങളോട് പറയേണ്ടതുണ്ട് തുടർന്ന് ഇവ വ്യക്തമാക്കിയ ശേഷം എനിക്ക് എന്റെ കണക്കുകൂട്ടലുമായി മുന്നോട്ട് പോകാമെന്ന് എനിക്കറിയാം കാരണം എന്റെ ഉത്തരം അദ്വിതീയമായിരിക്കും അതിനാൽ ഇതിന്റെ വളരെ ലളിതമായ ഉദാഹരണം ഉദാഹരണത്തിന് ഈ വോള്യം ഒരു സോളിഡ് പെർഫെക്റ്റ് ലോഹമാണെങ്കിൽ അതിനാൽ പെർഫെക്റ്റ് മെറ്റലിന് ഫീൽഡ് 0 ആണ് അതിനാൽ എനിക്ക് അത്തരമൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ വോള്യത്തിൽ ഒരു ഫീൽഡ് ഉണ്ടെന്ന് എനിക്കറിയാം ഞങ്ങൾ അദ്വിതീയമായിരിക്കും ഒരു ലളിതമായ ഉദാഹരണം ശരിയാണ് ഈ അദ്വിതീയ സിദ്ധാന്തം വ്യക്തമാണ് ഇപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം എന്തുകൊണ്ട് ഈ ലോസി വോളിയം V ശരിയാണ് എന്തിനാണ് V വോളിയം നഷ്ടമാകുന്നത് എങ്കിൽ എന്താണ് ഈ മാധ്യമത്തിൽ ഒരു നഷ്ടവും ഇല്ലെങ്കിലോ അതിനാൽ അതിനുള്ള ഉത്തരം സിദ്ധാന്തത്തിന്റെ പ്രസ്താവനയിൽ നിന്ന് വ്യക്തമല്ല നിങ്ങൾക്ക് അത് പരിഹരിക്കാൻ കഴിയുന്ന ഗൃഹപാഠ പ്രശ്നത്തിൽ ഞങ്ങൾക്ക് ഒരു ചെറിയ വ്യായാമം ഉണ്ടാകും നിങ്ങൾ മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങൾ എടുത്ത് അവ കുറച്ച് വോളിയത്തിൽ പരിഹരിക്കുമ്പോൾ ഈ സിദ്ധാന്തം നിലനിർത്തുന്നതിന് കുറച്ച് നഷ്ടം നിങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ടെന്ന് നിങ്ങൾ കണ്ടെത്തും പ്രായോഗികമായി ഈ നഷ്ടം വളരെ ചെറുതായിരിക്കും അതിനാൽ നിങ്ങൾക്ക് അതിനെ ഒരു നഷ്ടമില്ലാത്ത വോളിയം പോലെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ കഴിയും ശൂന്യമായ ഇടം നഷ്ടരഹിതമാണെന്ന് നമ്മൾ പറയുമെങ്കിലും വായു പോലും അതിന്റെ നഷ്ടമില്ലെന്ന് ഞങ്ങൾ പറയുന്നു എന്നാൽ യഥാർത്ഥത്തിൽ അതിൽ വളരെ ചെറിയ തോതിലുള്ള നഷ്ടം ഉണ്ടായിരിക്കാം ഇത് ഈ സിദ്ധാന്തത്തെ പ്രസക്തമായ ചോദ്യമാക്കാൻ അനുവദിക്കുന്നു വിദ്യാർത്ഥി അപ്പോൾ ഫീൽഡ് അദ്വിതീയമല്ലാത്തപ്പോൾ നമുക്ക് പറയുകയും ഒരു മാതൃക കാണിക്കുകയും ചെയ്യാം അതിനാൽ ഈ വ്യവസ്ഥകൾ തൃപ്തികരമല്ലെങ്കിൽ ഫീൽഡുകളുടെ സിദ്ധാന്തത്തിന്റെ പ്രത്യേകതയെക്കുറിച്ച് നമുക്ക് ഒരു പ്രസ്താവനയും നടത്താൻ കഴിയില്ല അതിനാൽ നിങ്ങൾ വ്യക്തമാക്കിയിട്ടില്ലാത്ത അല്ലെങ്കിൽ മുഴുവൻ അതിർത്തിയിലും ഉദാഹരണങ്ങൾ നിർമ്മിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കാം അങ്ങനെയെങ്കിൽ നിങ്ങൾ നൽകിയ ഭാഗിക വിവരങ്ങൾ തൃപ്തിപ്പെടുത്തുന്ന നിരവധി പരിഹാരങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചേക്കാം അതെ വിദ്യാർത്ഥി അയക്കുന്ന സിദ്ധാന്തം ഒരു ചാർജ് സാന്ദ്രതയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടോ ചാർജ് ഡെൻസിറ്റി അതിനാൽ ഞങ്ങൾ ഈ പ്രത്യേക സാഹചര്യത്തിൽ കറന്റുകളെ കുറിച്ച് മാത്രം സംസാരിക്കുന്ന ഒരു കേസ് കൈകാര്യം ചെയ്യുന്നു ശരി അതിനാൽ നമ്മൾ സംസാരിക്കുന്നത് ഇലക്ട്രോഡൈനാമിക്സിനെക്കുറിച്ചല്ല ഇലക്ട്രോസ്റ്റാറ്റിക് കേസുകളല്ല എന്നാൽ ആ സാഹചര്യത്തിലും ഒരു സിദ്ധാന്തം വിപുലീകരിക്കാം വിദ്യാർത്ഥി ഇതിൽ സ്റ്റാറ്റിക് ചാർജ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം അതെ ഇതിൽ ഞങ്ങൾ സ്റ്റാറ്റിക് കൈകാര്യം ചെയ്യില്ല സത്യത്തിൽ ഗ്രിഫിത്ത്സിന് അതിനെക്കുറിച്ച് വളരെ നല്ല ചർച്ചയുണ്ട് ഒരു സ്റ്റാറ്റിക് ചാർജ് അവിടെ ഇരിക്കാൻ പോകുന്നില്ല അത് എവിടേക്കെങ്കിലും പറന്നു പോകും അത് അവിടെ എന്നെന്നേക്കുമായി ഇരിക്കുന്ന സ്ഥലത്താണെങ്കിൽ അല്ലാതെ അതിനാൽ ഞങ്ങൾ പ്രായോഗികമായി സംസാരിക്കുന്നത് നിങ്ങൾ ആന്റിനകളുടെ റഡാർ ക്രോസ് സെക്ഷനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ചാർജിന്റെ പ്രശ്നം അവിടെ ഇരിക്കുന്നത് വളരെ പ്രസക്തമല്ലെന്ന് നിങ്ങൾക്കറിയാം ആ ചാർജുകളെല്ലാം ചലിക്കാൻ തുടങ്ങിയാൽ അവ വൈദ്യുതധാരകളായി മാറുന്നു ഞങ്ങൾ ഇതിനകം കറന്റുകളുമായി ഇടപെടുന്നു അതിനാൽ ഇത് അദ്വിതീയ സിദ്ധാന്തത്തെക്കുറിച്ചായിരുന്നു